ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഈ പ്രഭാഷണം ഈ പ്രത്യേക കോഴ്സിന്റെ അവസാന പ്രഭാഷണത്തിലെവിടെയോ ആണ് കൂടാതെ ഐസികൾ മുതൽ മോസ്ഫെറ്റുകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നീട് ഒപ് ആമ്പുകളും അവയുടെ ആപ്ലിക്കേഷനും കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഡാറ്റ ഷീറ്റ് നൽകുമ്പോൾ ഡാറ്റ ഷീറ്റ് തുറക്കാനും ഡാറ്റാ ഷീറ്റിൽ നൽകിയിരിക്കുന്ന പാരാമീറ്ററുകൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുമോ എന്നും ശരിയായ പാരാമീറ്ററുകൾ എന്താണെന്നും നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും അതിനാൽ നമ്മൾ എങ്ങനെയാണ് ഡാറ്റാ ഷീറ്റിലൂടെ കടന്നുപോകുന്നത് എന്ന് നോക്കാം എന്താണ് പാരാമീറ്ററുകൾ നൽകുന്നത് ആ പാരാമീറ്റർ നമ്മൾ മനസിലാക്കുന്നുണ്ടോ ചില സമവാക്യങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്നത് ആ പ്രത്യേക പാരാമീറ്ററുകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ശരിയായി പരിഹരിക്കാൻ കഴിയുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിനാൽ ഈ പ്രത്യേക പ്രഭാഷണത്തിനായി നമ്മൾ ഫെയർചൈൽഡിൽ നിന്നുള്ള ഐസി 741 ന്റെ ഡാറ്റ ഷീറ്റ് നോക്കും തുടർന്ന് അവതരണ സ്ലൈഡിലെ ചില പാരാമീറ്ററുകൾ നമ്മൾ ശരിയായി കാണും അതിനാൽ നിങ്ങൾ സ്ക്രീൻ കണ്ടാൽ സ്ക്രീനിൽ LM 741 നുള്ള ഡാറ്റ ഷീറ്റ് കാണിക്കുന്നു ഇതിനെ സിംഗിൾ ഒപ്പ് ആംപ് അല്ലെങ്കിൽ സിംഗിൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്നും വിളിക്കുന്നു അതിനാൽ സിംഗിൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഷോർട്ട് സർക്യൂട്ട് പരിരക്ഷണം മികച്ച താപനില സ്ഥിരത ആന്തരിക ആവൃത്തി നഷ്ടപരിഹാരം ഉയർന്ന ഇൻപുട്ട് വോൾട്ടേജ് ശ്രേണി ഓഫ്സെറ്റ് എന്നിവ ഈ പ്രത്യേക I സി യുടെ സവിശേഷതകളാണ് ഇപ്പോൾ നിങ്ങൾ വിവരണം നോക്കുകയാണെങ്കിൽ എൽഎം 741 സീരീസ് പൊതുവായ ഉദ്ദേശ്യമാണ് എന്നാണു കാണുന്നത് ഇത് വിശാലമായ ആപ്ലിക്കേഷൻ അനലോഗ് ആപ്ലിക്കേഷനുകൾക്കായി ഉദ്ദേശിച്ചുള്ളതാണ് ഉയർന്ന നേട്ടവും വിശാലമായ ഓപ്പറേറ്റിംഗ് വോൾട്ടേജും ഒരു ഇന്റഗ്രേറ്റർ വേനൽക്കാലത്ത് മികച്ച പ്രകടനം നൽകുന്നു അല്ലെങ്കിൽ ഒരു പൊതു ഫീഡ്ബാക്ക് അപ്ലിക്കേഷനായി ഉപയോഗിക്കുന്നു അതിനാൽ ഇവയെല്ലാം ആ ഡാറ്റ ഷീറ്റിലെ പാരാമീറ്ററുകൾ ആണ് എന്നാൽ എല്ലാ പാരാമീറ്ററുകളും ഇതിൽ ഇല്ല കാരണം ഇത് ഇത് ഡാറ്റാ ഷീറ്റിന്റെ ആദ്യ സ്ലൈഡ് മാത്രമാണ് വാസ്തവത്തിൽ 2 ഐസികൾ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഒന്ന് ഡ്യുവൽ ലൈൻ പാക്കേജ് DIP മറ്റൊന്ന് SOP 8 പിൻ കാരണം ഒപ് ആമ്പിന് 8 പിൻ ഉണ്ട് അത് നമ്മൾ ഇപ്പോൾ വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് അതിനാൽ അടുത്ത സ്ലൈഡിലേക്ക് ഞാൻ നീങ്ങിയാൽ നമ്മൾ കാണുന്നത് ഐസിയുടെ ആന്തരിക ബ്ലോക്ക് ഡയഗ്രം ആണ് നമ്മുടെ മുൻ ക്ലാസുകളിൽ പഠിച്ചതുപോലെ വലത് 2 വിപരീതമാണ് 3 വിപരീതമല്ല 6 output 7 Vcc 4 എന്നത് Vee അല്ലെങ്കിൽ Vcc 1 നും 5 നും ഇടയിലുള്ളത് നമുക്ക് 1 നും 5 നും ഇടയിൽ സെറ്റ് ശൂന്യമാക്കാം നമുക്ക് ഓഫ് സെറ്റ് നൾ സോറി ചെയ്യാം കൂടാതെ 8 ശരിയായി ബന്ധിപ്പിച്ചിട്ടില്ല അതിനാൽ ഇത് നമ്മളുടെ ഐസിയാണ് ഇത് ഒരു ആന്തരിക ബ്ലോക്ക് ഡയഗ്രമാണ് കൂടുതൽ അകത്തേക്ക് പോയാൽ നിങ്ങൾക്ക് സ്കീമാറ്റിക് ഡയഗ്രം കാണാം അവിടെ നിങ്ങൾക്ക് ഓഫ്സെറ്റും ശൂന്യവും കാണാൻ കഴിയും എവിടെയാണ് വിപരീതമല്ലാത്ത ടെർമിനൽ output എങ്ങനെ എടുക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ op amp മനസിലാക്കാൻ ഇൻപുട്ടിൽ നിന്ന് output ട്ട്പുട്ടിലേക്ക് 4 വ്യത്യസ്ത ബ്ലോക്കുകൾ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല കാരണം ഇത് നിങ്ങൾക്ക് മനസിലാക്കാനും സർക്യൂട്ട് എങ്ങനെ രൂപകൽപ്പന ചെയ്യാമെന്ന് മനസിലാക്കാനും കഴിയുന്ന മറ്റൊരു ഭാഗം ഉണ്ട് പ്രവർത്തന ആംപ്ലിഫയറിന്റെ ഈ പ്രത്യേക ആന്തരിക സർക്യൂട്ട് എങ്ങനെ രൂപകൽപ്പന ചെയ്യും ഈ പ്രത്യേക കോഴ്സിന്റെ ആശയം ഇതെല്ല എന്നാൽ താൽപ്പര്യമുള്ളവർക്ക് കഡെൻസ് പഠിക്കാം ഈ സർക്യൂട്ട് ഡയഗ്രമുകൾ അല്ലെങ്കിൽ ആംപ്ലിഫയറുകളുടെ ആന്തരിക സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു അതിനാൽ 25 ഡിഗ്രി സെന്റിഗ്രേഡിലെ കേവലമായ പരമാവധി റേറ്റിംഗുകൾ നോക്കുമ്പോൾ സപ്ലൈ വോൾട്ടേജ് Vcc നമ്മൾ കാണുന്നത് ഡിഫറൻഷ്യൽ ഇൻപുട്ട് വോൾട്ടേജാണ് ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ output ഷോർട്ട് സർക്യൂട്ട് ദൈർഘ്യം power dissipation താപനില പരിധി തുടർന്ന് ഹ്രസ്വ താപനില പരിധി എന്നിവ നോക്കുക ഈ പാരാമീറ്ററുകൾ കേവലമായ പരമാവധി റേറ്റിംഗുകളായി നമ്മൾ കാണുന്നു തുടർന്ന് നമ്മൾ കാണുന്നത് ഇലക്ട്രിക്കൽ സ്വഭാവഗുണങ്ങൾ ആണ് അതിനാൽ ഈ പ്രത്യേക സ്ലൈഡിൽ നമ്മൾ ഇവിടെ തിരയുന്ന കാര്യങ്ങൾ എന്താണെന്നുവെച്ചാൽ ഈ പ്രത്യേക പാരാമീറ്ററുകൾ ഉപയോഗിച്ച് എങ്ങനെ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് കാണും അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് പാരാമീറ്റർ ഉണ്ട് അത് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ആണ് നിങ്ങൾക്ക് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ക്രമീകരണ ശ്രേണി ഉണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് ഉണ്ട് തുടർന്ന് നിങ്ങൾക്ക് ഇൻപുട്ട് ബയസ് കറന്റ് ഉണ്ട് ഇൻപുട്ട് ഉപയോഗിക്കുന്ന പ്രശ്നങ്ങളും നമ്മൾ കണ്ടു നിലവിലെ ഇൻപുട്ട് ബയസ് കറൻറ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് ശ്രേണി വലിയ സിഗ്നൽ വോൾട്ടേജ് നേട്ടം output ഷോർട്ട് സർക്യൂട്ട് കറന്റ് output വോൾട്ടേജ് സ്വിംഗ് എന്നിവ കാണുക നിരവധി പാരാമീറ്ററുകൾ ഉണ്ട് ശരിയാണ് സാധാരണ മോഡ് നിരസിക്കൽ അനുപാതത്തെക്കുറിച്ച് നമ്മൾ ഇതിനകം ചർച്ചചെയ്തതിനാൽ നമ്മൾ സാധാരണ മോഡ് നിരസിക്കൽ അനുപാതത്തിലേക്ക് പോകുന്നു നിങ്ങൾ ഉടനടി ഓർമിക്കുന്ന ചില പാരാമീറ്ററുകൾ ഇതിലുണ്ട് ഇത് പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ എന്ന് വിളിക്കപ്പെടുന്നു തുടർന്ന് ബാൻഡ്വിഡ്ത്ത് റൈറ്റ് സ്ലീവ് റേറ്റ് സപ്ലൈ നിലവിലെ വൈദ്യുതി ഉപഭോഗം എന്നിവയുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാത്ത ഒരു കാര്യം പെട്ടെന്ന് നിങ്ങളിലേക്ക് വരരുത് സാധാരണ മോഡ് നിരസിക്കൽ അനുപാതം ദശാംശത്തിൽ നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു ബാൻഡ്വിഡ്ത്ത് മെഗാഹെർട്സിൽ നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു വൈദ്യുതി ഉപഭോഗം സാധാരണയായി മില്ലിവോൾട്ടുകളായതിനാലാണ് സ്ലീവ് നിരക്ക് മൈക്രോസെക്കന്റിന് വോൾട്ട് നിരക്കിൽ നൽകുന്നത് അതിനാൽ നമ്മൾക്ക് ഇവ ശരിയായി അറിയാം നിങ്ങൾ കൂടുതൽ മുന്നോട്ട് പോയാൽ സാധാരണ പ്രകടന സവിശേഷതകൾ അതായത് output റെസിസ്റ്റൻസും ഫ്രീക്വൻസിയും കാണുവാൻ സാധിക്കും കൂടുതൽ മുന്നോട്ട് പോയാൽ ഇൻപുട്ട് റെസിസ്റ്റൻസും ഇൻപുട്ട് കപ്പാസിറ്റൻസും വേഴ്സസ് ഫ്രീക്വൻസിയും നമ്മൾ കാണുന്നു ഇൻപുട്ട് ബയസ് കറന്റ് ആംബിയന്റ് കറന്റ് ടെമ്പറേച്ചർ എന്നിവ നമ്മൾ കാണുന്നു consumption ഉപഭോഗവും ആംബിയന്റ് താപനിലയും നമ്മൾ കാണുന്നു ഇത് ഒരു പ്രകടന പാരാമീറ്ററാണ് ഈ പ്ലോട്ടുകളിലേക്ക് നമ്മൾ നോക്കിയാൽ മൈനസ് 20 മുതൽ 60 വരെയുള്ള താപനില ഉപയോഗിച്ച് ഇൻപുട്ട് പ്രതിരോധം എങ്ങനെ മാറുമെന്ന് പറയാൻ പറ്റുമോ ഇൻപുട്ട് പ്രതിരോധം എങ്ങനെ മാറും താപനിലയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റും ഇൻപുട്ട് ബയസ് കറന്റും എങ്ങനെ മാറും ആവൃത്തിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ output പ്രതിരോധം എങ്ങനെ മാറാൻ പോകുന്നു നിങ്ങളുടെ ആവൃത്തിയുമായി ബന്ധപ്പെട്ട് ഇൻപുട്ട് പ്രതിരോധം എങ്ങനെ ശരിയാകും

അതിനാൽ ഇവ പ്ലോട്ടുകളാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജും ആംബിയന്റ് താപനിലയും തമ്മിലുള്ള മറ്റൊരു പ്ലോട്ടുകളും ഉണ്ട് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് ആംബിയന്റ് താപനിലയിൽ എങ്ങനെ മാറുന്നു അന്തരീക്ഷ താപനിലയുമായി ഇൻപുട്ട് പ്രതിരോധം എങ്ങനെ മാറുന്നുവെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് പിന്നെ നമ്മൾ ഡിസി പാരാമീറ്ററുകൾ ആംബിയന്റ് താപനില എന്നിവ നോർമലൈസ് ചെയ്തു ഉദാഹരണത്തിന് ഇൻപുട്ട് റെസിസ്റ്റൻസ് പവർ സപ്ലൈ കറൻറ് output ഷോർട്ട് സർക്യൂട്ട് കറൻറ് എന്നിവ പിന്നെ നമുക്ക് ടാൻജെന്റ് റെസ്പോൺസ് കറൻറ് ഫ്രീക്വൻസി versus ആംബിയന്റ് ടെമ്പറേച്ചർ ടാൻജെന്റ് സ്ലീവ് റേറ്റ് ക്ലോസ് ലൂപ്പ് ബാൻഡ്വിഡ്ത്ത് പിന്നെ output ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആംബിയന്റ് ടെമ്പറേച്ചർ എന്നിവയും ഉണ്ടാകും ഫ്രീക്വൻസി സ്വഭാവസവിശേഷതകൾ വേഴ്സസ് സപ്ലൈ വോൾട്ടേജിനായി സ്ലീവ് റേറ്റ് ടാൻജെന്റ്ക്കായി പ്രതികരണമുണ്ടെന്നും നമ്മൾ കാണുന്നു അതിനാൽ ടാൻജെന്റ് പ്രതികരണം ശരിയായി മനസിലാക്കേണ്ട ധാരാളം പ്ലോട്ടുകൾ ഉണ്ട് ഫ്രീക്വൻസിക്ക് എതിരായ കോമൺ മോഡ് നിരസിക്കൽ അനുപാതം നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതിനെപ്പറ്റി എല്ലാം ഈ പ്രത്യേക പാരാമീറ്ററുകൾക്ക് പുറമെ നമ്മൾ മനസ്സിലാക്കുന്നു പാക്കേജിംഗ് എങ്ങനെ നടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്ന മെക്കാനിക്കൽ അളവുകൾ എന്ന് വിളിക്കുന്ന മറ്റ് പാരാമീറ്ററുകൾ ഉണ്ട് ഉദാഹരണത്തിന് 8 പിൻ ഇരട്ട ഇൻലൈൻ പാക്കേജ് ആണെങ്കിൽ ഈ പിൻറെ വലുപ്പം എന്താണ് ഈ ഐസിയുടെ ചിപ്പിന്റെ വലുപ്പം എന്താണ് ഇതെല്ലാം നൽകിയിട്ടുണ്ട് ഓരോ പിന്നിന്റെയും 2 പിൻ വലുപ്പങ്ങൾക്കിടയിലുള്ള ഈ വിടവ് എല്ലാം ഡാറ്റാ ഷീറ്റിൽ നൽകിയിരിക്കുന്ന നീളത്തിൽ തന്നെ കാണാം കൂടുതൽ മുന്നോട്ട് പോയാൽ SOP നായി എല്ലാം നൽകിയിരിക്കുന്നു ശരി അതിനാൽ വിവരങ്ങൾ ശരിയായി ക്രമീകരിക്കുന്നു നിങ്ങൾക്ക് 0 മുതൽ 70 വരെ താപനില ഉപയോഗിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നുകിൽ എൽഎം 741 8 പിൻ ഡിഐപി അല്ലെങ്കിൽ 8 പിൻ എസ്ഒപി ഉണ്ടായിരിക്കാം അതേസമയം 40 മുതൽ 85 ഡിഗ്രി വരെ പോകണമെങ്കിൽ നമ്മൾ 8 പിൻ ഡിഐപി എൽഎം 741 ലേക്ക് പോകണം ശരി ഇത് ഒരു ഓർഡറിംഗ് വിവരമാണ് അതായത് നിങ്ങൾ ഒരു ഐസി ഓർഡർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നിരിക്കട്ടെ നിങ്ങൾക്ക് അതിൻറെ പരാമീറ്റർ അറിഞ്ഞിരിക്കണം ഈ പരാമീറ്റുകൾ നിങ്ങൾക്ക് ഡാറ്റ ഷീറ്റുകൾ നോക്കി മനസ്സിലാക്കുവാൻ കഴിയും അതായത് ആവശ്യത്തിനനുസരിച്ച് ഡാറ്റ ഷീറ്റുകൾ നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ കഴിയും അതിനാൽ ഓപ്പറേറ്റർ താപനില കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ ഓർഡറിംഗ് വിവരങ്ങളും നൽകിയിട്ടുണ്ട് കൂടാതെ മറ്റ് പാരാമീറ്ററുകളും ഉണ്ട് അതിനാൽ ഇത് ഇൻപുട്ട് ബയസ് current താപനില നഷ്ടപരിഹാരം വൈദ്യുതി വിതരണ നിരസിക്കൽ അനുപാതം കോമൺ മോഡ് നിരസിക്കൽ അനുപാതം ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് സിഎംആർആർ നിയമം കോമൺ മോഡ് നിരസിക്കൽ അനുപാതം എന്നിവപോലെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത കാര്യം ആണ് ഓപ്പറേറ്റിംഗ് ആവൃത്തി എന്താണ് ഇൻപുട്ട് പ്രതിരോധം എങ്ങനെ മാറും output പ്രതിരോധം അന്തരീക്ഷ താപനിലയുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രവർത്തിക്കും ഐസിയെ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെ പെരുമാറും ഡാറ്റാ ഷീറ്റ് പൊതുവെ നമ്മൾക്ക് നൽകുന്നത് എന്താണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടതിനാൽ ഇത് ഡാറ്റാ ഷീറ്റിന്റെ അവസാനമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഡാറ്റാ ഷീറ്റ് നമുക്ക് നൽകുന്നത് ഈ പ്രത്യേക പാരാമീറ്ററുകളാണ് മെക്കാനിക്കൽ അളവുകൾ ഉൾപ്പെടെ വൈദ്യുത സ്വഭാവസവിശേഷതകൾ ഉൾപ്പെടെ അതിൽ പെടും നിരവധി പ്ലോട്ടുകൾ ഉണ്ട് ശരിയാണ് അതുകൊണ്ട് എനിക്ക് വൈദ്യുത സ്വഭാവസവിശേഷതകൾ ഉൾപ്പെടെ പറയാൻ കഴിയും സർക്യൂട്ടിന്റെ രൂപകൽപ്പന മനസിലാക്കാൻ ഓരോ കാര്യവും നമ്മളെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണത്തിന് നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് മനസിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഡ്രിപ്പ് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അതിനാൽ പാരാമീറ്ററുകൾ എന്താണെന്നും നമുക്ക് എങ്ങനെ സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യാമെന്നും അല്ലെങ്കിൽ ഇത് സർക്യൂട്ടിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെ എങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് നോക്കാം അതിനാൽ ഇൻപുട്ട് ബയസ് വൈദ്യുത പ്രവാഹ ആംപ്ലിഫയർ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് മനസിലാക്കാം കുറച്ച് പാരാമീറ്ററുകൾ നമ്മൾ കാണും അവ എങ്ങനെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്ന് നമ്മൾ കാണും ആദ്യത്തേത് ഇൻപുട്ട് ബയസ് നിലവിലെ Ib1 Ib2 എന്നിവയാണ് ഇൻപുട്ട് ബയസ് കറന്റ് എന്താണെന്ന് നമ്മൾ പ്രഭാഷണങ്ങളിൽ കണ്ടു ഓപ് ആമ്പിൻറെ ഇൻപുട്ട് ഇംപെഡൻസ് അനന്തമാണെന്ന് നമ്മൾക്കറിയാം ഓപ് ആമ്പിൻറെ ഇൻപുട്ടിൽ നിലവിൽ കറന്റ് കടക്കുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ ചില ഇൻപുട്ടുകൾ അവിടെ ഉണ്ടാകും പ്രായോഗിക ഒപുകളിൽ വൈദ്യുത പ്രവാഹം ഉണ്ടെന്ന് നമ്മൾ കാണുന്നു ബയസ് റെസിസ്റ്റർ എന്നിവയുടെ ഇൻപുട്ട് പിന്നുകളിലേക്ക് ഒഴുകുന്ന ഈ വൈദ്യുതധാരയെ ഇൻപുട്ട് ബയസ് കറന്റുകൾ എന്ന് വിളിക്കുന്നു 741ശ്രേണിൽ 80 നാനോ ആമ്പിയർ ആണ് ഇത് ചില FET ഒപ് ആമ്പുകൾക്ക് ഇൻപുട്ട് ബയസ് കറന്റ് 1 പിക്കോ ആമ്പിയർനു താഴെയാണ് Op amp ഡാറ്റ ഷീറ്റ് ഇത് വ്യക്തമാക്കുന്നു ഇൻപുട്ട് ബയസ് കറന്റുകളുടെ ശരാശരി മൂല്യമായ ഇൻപുട്ട് ബയസ് കറൻറ് ഉണ്ട് വിപരീതമല്ലാത്ത ടെർമിനലിൽ Ib1 ഉം ഇൻവെർട്ടിംഗ് ടെർമിനലിൽ Ib2 ഉം ഉണ്ട് അതിനാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാറ്റ ഷീറ്റ് നിങ്ങൾക്ക് ഐബി മൂല്യം തരും പക്ഷേ അത് Ib1 Ib2 2 ആണ് അതിനാൽ ഇത് നിങ്ങളുടെ ഇൻപുട്ട് ബയസ് നിലവിലെ ഇൻപുട്ട് ബയസ് കറന്റാണ് ഇപ്പോൾ ഒപ് ആമ്പിലെ ബയാസ് കറന്റുകളുടെ പ്രഭാവം മനസിലാക്കാൻ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ വിപരീത ക്രമീകരണം പരിഗണിക്കാം ഇത് R1 R2 ആണെങ്കിൽ നമ്മൾ പ്രയോഗിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നതുപോലെ ഒരു വിപരീത ആംപ്ലിഫയറാണ് ഇപ്പോൾ ഞാൻ K C L പ്രയോഗിച്ചാൽ അത് നോഡിലെ കിർചോഫ് കറൻറ് ലോ ആണ് ഞാൻ കാണുന്നത് I1 I2 Ib1 ആണ് ഞാൻ വിർച്വൽ ഗ്രൌണ്ട് പ്രയോഗിച്ചാൽ V V എന്ന് കണ്ടെത്തും കാരണം നിങ്ങളുടെ വിപരീത ടെർമിനൽ ഗ്രൌണ്ടിലാണ് ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ വോൾട്ടേജായിരിക്കും കാരണം നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൌണ്ടിലാണ് അതിനാൽ V V 0 അതിനാൽ കിർചോഫ് വോൾട്ടേജ് നിയമത്തിൽ നിന്നും ഓം നിയമത്തിൽ നിന്നും നമ്മൾ Iin അല്ലെങ്കിൽ I1 R1 എന്ന് കണ്ടെത്തുന്നു നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ ഈ കറന്റ് എന്താണ് Vin കൂടാതെ നമ്മൾ V കൂടി പരിഗണിക്കണം അതിനാൽ ഫലങ്ങൾ പ്രതീക്ഷിച്ച വിപരീത ആംപ്ലിഫയർ സമവാക്യത്തിലേക്ക് കുറയ്ക്കുകയും മുകളിലുള്ള പദപ്രയോഗത്തിലെ രണ്ടാമത്തെ ടേം Ib1 R2 Ib1 R2 നിങ്ങൾക്ക് ലഭിച്ച ഓഫ്സെറ്റ് വോൾട്ടേജിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് വളരെ പ്രധാനമാണ് എന്തുകൊണ്ടാണ് output ഓഫ്സെറ്റ് വോൾട്ടേജ് നോക്കുന്നതു കാരണം output ലഭിക്കുന്നതിന് നമ്മൾ ക്രമീകരിക്കേണ്ട വോൾട്ടേജിന്റെ അളവ് 0 ന് തുല്യമാണ് എന്റെ ആംപ്ലിഫയർ ബാലൻസ് ചെയ്യേണ്ടിവരുമ്പോൾ എന്റെ ആംപ്ലിഫയർ ഗ്രൌണ്ട് output 0 ന് തുല്യമാണ് അതിനുശേഷം ഞാൻ എന്റെ output ക്രമീകരിക്കേണ്ടതുണ്ട് അതിനാൽ ഇൻപുട്ട് കണക്റ്റുചെയ്തിട്ടില്ലെങ്കിൽ Vin 0 ന് തുല്യവും Vout 0 ന് തുല്യവുമാണെന്ന് വിശകലനം ചെയ്യാൻ കഴിയും എന്നാൽ ഇൻപുട്ട് ബയസ് കറന്റ് കാരണം 0 ഇൻപുട്ടിൽ പോലും output വോൾട്ടേജ് ഉണ്ട് Vനോടനുബന്ധിച്ച് രണ്ട് ടെർമിനലുകളും Vin ഗ്രൌണ്ട് ചെയ്താൽ എന്റെ output വോൾട്ടേജ് 0 അല്ലെന്ന് ഞാൻ കാണും പക്ഷേ ഇൻപുട്ട് ബയസ് കറന്റ് കാരണം വോൾട്ടേജിന് കുറച്ച് വോൾട്ടേജ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും പക്ഷേ ഓപിയുടെ സാധാരണ ബയസ് കറന്റ 80 നാനോ ആമ്പിയർന് തുല്യമാണ് ഇത് ഫലമായി Vin ഇൻപുട്ട് വോൾട്ടേജ് 0 ന് തുല്യമാകുമ്പോൾ ഒപ് ആമ്പിന് 1 മെഗാ ഓമിന്റെ ഒരു ഫീഡ്ബാക്ക് പ്രതിരോധം ഉള്ളതിനാൽ ഒപ് ആമ്പ് Vout ന്റെ വോൾട്ടേജ് 80 നാനോ ആമ്പിയറിന് തുല്യമായി ഉത്പാദിപ്പിക്കും പക്ഷേ അത് 18 മില്ലിവോൾട്ട്ന് തുല്യമാണ് ഇപ്പോൾ സിഗ്നൽ ലെവലുകൾ ഉപയോഗിച്ചുള്ള ആപ്ലിക്കേഷൻ മില്ലിവോൾട്ടുകളിൽ അളക്കുന്നു ഇത് പൂർണ്ണമായും സ്വീകാര്യമല്ല ഇതിന് ഒരു കോമ്പൻസേഷൻ നൽകാം ഉദാഹരണത്തിന് ഒരു സെൻസറിനായി ഒരൊറ്റ കണ്ടീഷൻ സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യുന്നതിന് ഞാൻ ഒരു ഓപ് ആമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉത്തേജനം ഇല്ലാത്തപ്പോൾ അത് output വോൾട്ടേജിൽ ശരിയാക്കുന്നു ഇത് എന്താണ് അർത്ഥമാക്കുന്നത് മുകളിലുള്ള വാക്യം എന്താണ് അർത്ഥമാക്കുന്നത് എനിക്ക് ഇൻപുട്ട് വോൾട്ടേജ് 0 ന് തുല്യമാണെങ്കിൽ output വോൾട്ടേജിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഞാൻ കാണുന്നു ഈ വോൾട്ടേജ് കുറച്ച് വൈദ്യുതധാരയ്ക്ക് കാരണമാകുന്നു ഈ അളവ് മില്ലിവോൾട്ടുകളിൽ തന്നെ അളക്കുന്നു ഇത് ഇൻപുട്ട് വോൾട്ടേജ് ഇല്ലാത്തപ്പോഴും മില്ലിവോൾട്ടുകളുടെ output വോൾട്ടേജ് ഉണ്ട് ഞാൻ ഇവിടെ ഒരു സെൻസർ ബന്ധിപ്പിക്കുന്നുവെന്ന് കരുതുക സെൻസറിലേക്ക് ഒരു ഉത്തേജകവും പ്രയോഗിക്കാതെ നമുക്ക് ഒരുതരം output വോൾട്ടേജ് ലഭിക്കുന്നു സെൻസർ മാറുമ്പോൾ അതിന്റെ മൂല്യം മാറും പക്ഷേ ഞാൻ ഈ സെൻസർ ഉപയോഗിക്കാത്തപ്പോൾ output 0 ആയിരിക്കണം പക്ഷേ output വോൾട്ടേജ് ഉണ്ടെന്ന് ഞാൻ കാണും കാരണം ഉത്തേജനം നിലവിലുണ്ടെന്ന് സിസ്റ്റം മനസിലാക്കിയേക്കാം സാധാരണയായി സെൻസറിന്റെ സംവേദനക്ഷമത വളരെ മോശമാണ് അതിനാൽ ഇത് സിസ്റ്റത്തിന്റെ കൃത്യതയെ ബാധിക്കുന്നു അതിനാൽ ഇൻപുട്ട് ബയസ് കറന്റ് ആംപ്ലിഫയറിന്റെ മൊത്തത്തിലുള്ള പ്രകടനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണിത് അതിനാൽ ഇൻപുട്ട് ബയസ്ൻറെ നിലവിലെ പ്രഭാവം നമ്മൾ നികത്തേണ്ടതുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം ഇൻപുട്ട് ബയസ് കറന്റിന്റെ പ്രഭാവം എങ്ങനെ നികത്തും അതിനാൽ output ഓഫ്സെറ്റ് വോൾട്ടേജ് കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം ഫീഡ്ബാക്ക് റെസിസ്റ്റർ R2 കുറയ്ക്കുന്നതിലൂടെയാണെന്ന് output വോൾട്ടേജ് എക്സ്പ്രഷനിൽ നിന്ന് കാണാൻ കഴിയും പക്ഷേ ഫീഡ്ബാക്ക് റെസിസ്റ്റർ R2 കുറയ്ക്കുന്നത് ആവശ്യമായ നേട്ടം ശരിയായി നേടാൻ കഴിയില്ല അതിനാൽ ബയസ് കറന്റ് മൂലമുണ്ടാകുന്ന പ്രഭാവം നികത്താനുള്ള ഒരു മാർഗ്ഗം വിപരീതമല്ലാത്ത ടെർമിനലിലെ ഒരു പ്രതിരോധം ഒരു ഒപ് ആമ്പിന്റെ ഗ്രൌണ്ടിലേക്ക് ഉപയോഗിക്കുക എന്നതാണ് അതിനാൽ ഉത്തരം എന്താണ് ഒപ് ആമ്പിന്റെ വിപരീതമല്ലാത്ത ടെർമിനലിൽ നമുക്ക് അറിയാവുന്ന ഒരു റെസിസ്റ്റർ ഉപയോഗിക്കാം വിപരീതമല്ലാത്ത ടെർമിനലിൽ ഞാൻ ഒരു റെസിസ്റ്റർ അറ്റാച്ചുചെയ്താൽ ഇത് എങ്ങനെ സഹായകരമാകും അതിനാൽ എന്ത് പ്രതിരോധമാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ ശരിയായ രീതിയിൽ കാണുക ചുവടെയുള്ള ഒരു ചിത്രം നമുക്ക് പരിഗണിക്കാം ഇന്പുട്ട് ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നു കൂടാതെ വിപരീതമല്ലാത്ത ടെർമിനൽ റെസിസ്റ്റർ R3യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതുമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ ഇൻപുട്ട് ബയസ് കറന്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷേ എനിക്ക് ഇഫക്റ്റ് നീക്കംചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയറിലെ ഇൻപുട്ട് ബയസ് കറന്റിന്റെ പ്രഭാവം കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് എനിക്ക് ഇഫക്റ്റ് കുറയ്ക്കാൻ കഴിയുക R3 R1 ന് തുല്യമായിട്ടും R2 ന് സമാന്തരമായിട്ടും സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നേരിട്ട് മനസിലാക്കാൻ കഴിയും ഇൻപുട്ട് ബയസ് കറന്റ് പ്രശ്നം പരിഹരിക്കാൻ നമ്മൾക്ക് കഴിയും അതിനാൽ ഇൻപുട്ട് ബയസ് കറന്റും അവസാനവും എന്താണെന്ന് എനിക്കറിയാമെങ്കിൽ വിപരീത ആംപ്ലിഫയറായ ഒരു ആംപ്ലിഫയർ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ R2 ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഇൻപുട്ട് റെസിസ്റ്റർ R1 ന്റെ ഒരു മൂല്യമുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എനിക്ക് ഉണ്ടായിരിക്കും വിപരീതമല്ലാത്ത ടെർമിനലിനും നിലത്തിനും ഇടയിൽ എനിക്ക് ബന്ധിപ്പിക്കാൻ കഴിയുന്ന R3 ന്റെ മൂല്യം R3 ന്റെ മൂല്യം R2 ന് സമാന്തരമായി R1 ന് തുല്യമായിരിക്കും അങ്ങനെ ഞാൻ കോമ്പൻസെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ആംപ്ലിഫയർ outputൽ ഇൻപുട്ട് ബയസ് കറന്റിലെ ഏതെങ്കിലും ഫലം ഉണ്ട് എങ്കിൽ അവ നീക്കംചെയ്യുന്നു അതിനാൽ ഇൻപുട്ട് ബയസ് കറന്റ് എങ്ങനെ മനസ്സിലാക്കാമെന്നതിന് ഉദാഹരണം ഇതാണ് ഇത് ഈ പ്രത്യേക മൊഡ്യൂളിന്റെ അവസാനമാണ് ഇൻപുട്ട് ഓഫ്സെറ്റ്ന്റെ പ്രഭാവം എന്താണെന്ന് അടുത്ത മൊഡ്യൂളിൽ നോക്കാം ഇപ്പോൾ കണ്ടത് ഇൻപുട്ട് ബയസ് കറന്റിന്റെ effect ആണ് അടുത്ത മൊഡ്യൂളിൽ നമ്മൾ ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റിന്റെ effect എന്താണെന്ന് നോക്കും അതുവരെ നിങ്ങൾ ശ്രദ്ധിക്കുകയും അടുത്ത മൊഡ്യൂൾ ഞാൻ നിങ്ങളെ കാണുകയും ചെയ്യും